ABC യുടെ പരാജയം അതിനാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന അടുത്ത വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളിൽ ആദ്യം ആശയവിനിമയം നടത്തുകയും തുടർന്ന് തികച്ചും പൊരുത്തമുള്ള പാളികൾ എന്ന് വിളിക്കപ്പെടുന്നവ നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് അതിനാൽ ഇത് പ്രചോദിപ്പിക്കുന്നതിന് ആദ്യം എന്തുകൊണ്ടാണ് അതിർത്തി വ്യവസ്ഥകൾ ആഗിരണം ചെയ്യുന്നത് പരാജയപ്പെടുന്നതെന്നും തുടർന്ന് അതിനുള്ള പ്രതിവിധിയും നമുക്ക് കാണാം അങ്ങനെ നമ്മൾ തികച്ചും പൊരുത്തപ്പെടുന്ന പാളികളിലേക്ക് വരുന്നു തികച്ചും പൊരുത്തപ്പെടുന്ന ഈ പാളികളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം 90 കളിലാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് ഇത് FDTD യിൽ പരിമിതപ്പെടുത്തിയിട്ടില്ല FEM ൽ പോലും നമുക്ക് PML നടപ്പിലാക്കാൻ കഴിയും ചിലർ അങ്ങനെ ചെയ്തതുമാണ് അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ സൈദ്ധാന്തിക വികസനം ആരംഭിക്കുകയും തുടർന്ന് FDTD യിൽ നടപ്പിലാക്കുകയും ചെയ്യും എന്നാൽ നമുക്ക് FEM ൽ അത് നടപ്പിലാക്കാനും കഴിയും അതിനാൽ അതിർത്തി വ്യവസ്ഥകൾ ആഗിരണം ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതിൽ നിന്നാണ് നമ്മൾ ശരിയായ രീതിയിൽ ആരംഭിക്കുന്നത് അതിനാൽ ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് പോകാം അതിനാൽ ഇവിടെ വ്യത്യസ്തമായത് ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമമാണ് മുമ്പ് ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥകൾ നോക്കിയപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് ആരംഭിച്ചത് അത് 1D ശൂന്യതയിൽ നിന്നാണ് 1D ശൂന്യതയിൽ നമ്മൾ അതിർത്തി വ്യവസ്ഥ പ്രയോഗിച്ച് ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥകൾ തികച്ചും ശരിയാണെന്ന് നമ്മൾ കണ്ടെത്തി അവ ഒരിക്കലും നമുക്ക് പ്രതിഫലനം നൽകുന്നില്ല അതിനാൽ നമ്മൾ ചർച്ച 1D യിലേക്ക് പരിമിതപ്പെടുത്തും പക്ഷേ ഇപ്പോൾ അത് ഒരു നഷ്ടം സംഭവിക്കുന്ന മാധ്യമമായി മാറ്റുക അത് മാത്രമാണ് ഇവിടത്തെ വ്യത്യാസം തുടർന്ന് ഇവിടെ ABC ക്ക് അത് ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മൾ കണ്ടെത്തും അതിനാൽ അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നഷ്ടം സംഭവിക്കുന്ന മാധ്യമത്തിന് പൂജ്യമല്ലാത്ത ഒരു ചാലകതയാണുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ് ഒരു ചിതറിക്കിടക്കുന്ന മാധ്യമം പോലും നമ്മൾ പരിഗണിക്കുന്നില്ല നമ്മൾ എടുക്കുന്നത് എന്തിലും ആയിരിക്കും അതിനാൽ അത് ഒരൊറ്റ തരം ആവൃത്തി ഉള്ളതാണ് അതിനാൽ ഇത് എല്ലാവർക്കും പരിചിതമായ നിങ്ങളുടെ മാക്സ്വെല്ലിന്റെ സമവാക്യമാണ് അതിനാൽ ഇവിടെ ഒരു t ഉണ്ടെന്ന് കരുതുക പക്ഷേ എല്ലായിടത്തും അത് സമാനമായി ഉള്ളതാണ് അതുകൊണ്ട് എഴുതണം എന്ന് നിർബന്ധമില്ല ഞാൻ വൈദ്യുതിയുടെ പദം ഓമിന്റെ നിയമം ഉപയോഗിച്ച് മാറ്റി ക്ക് പകരം ഞാൻ സ്റ്റാൻഡേർഡ് നൽകി അതിനാൽ ഈ സമവാക്യങ്ങൾക്കെല്ലാം ഒരു t ആശ്രിതത്വം ഉണ്ടായിരിക്കണം തുടർന്ന് നമ്മൾ ആണ് ചെയ്യുന്നത് അതിനാൽ ബിരുദ കോഴ്സുകളിൽ നാമെല്ലാവരും കണ്ട ഇത് നമുക്ക് നൽകുന്നു തുടർന്ന് ഇവിടെ നിന്നുള്ള ശരിയായ നടപടി ഫലപ്രദമായ പെർമിറ്റിവിറ്റി വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നതാണ് ഞാൻ പുറത്തെടുക്കുന്നു അകത്ത് അവശേഷിക്കുന്നതെല്ലാം ഈ ബ്രാക്കറ്റിനുള്ളിലുണ്ട് അതിനാൽ ഈ പദം ഒരു ഫലപ്രദമായ ആപേക്ഷിക പെർമിറ്റിവിറ്റി പോലെ കാണപ്പെടുന്നു അതിനാൽ ഞാൻ അതിനെ എന്ന് വിളിക്കും അത് വ്യക്തമായും സങ്കീർണ്ണമായതാണ് അതിനാൽ ഇത് നമ്മുടെ യഥാർത്ഥ മാക്സ്വെല്ലിന്റെ സമവാക്യം പോലെയാണ് അവിടെ ഞാൻ ഉപയോഗിച്ച് എനിക്ക് എന്ന ആപേക്ഷിക പെർമിറ്റിവിറ്റി നേടുന്നുവെന്ന് കരുതുക ശരി പിന്നെ ഞാൻ എന്തുചെയ്യും അതിനാൽ 1D മാധ്യമത്തിൽ വളരെ ലളിതമായി ഞാൻ രണ്ട് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ എടുക്കും ശേഷം മറ്റേതിൻറെ കേൾ എടുക്കുന്നു അപ്പോൾ എനിക്ക് ഒരു തരംഗ സമവാക്യം ലഭിക്കും ആ തരംഗ സമവാക്യം ഇത്തരത്തിലുള്ളതാണ് ഇവിടെ ആകെ സംഭവിക്കുന്ന മാറ്റം എന്തെന്നാൽ നു പകരം എനിക്ക് ലഭിക്കുന്നു അവിടെയുള്ള ആപേക്ഷിക പെർമിറ്റിവിറ്റി എന്താണെങ്കിലും അത് ഇവിടെയും വരുന്നു അതിനാൽ നമ്മൾ ഇവിടെയുള്ള ഈ പദത്തിനെ എന്ന് വിളിക്കുന്നു കാരണം നമ്മൾ നിരവധി തവണ തരംഗ സമവാക്യം കണ്ടുപിടിച്ചതാണ് അതിനാൽ നമ്മൾ ഇത് വീണ്ടും ഇവിടെ കണ്ടുപിടിക്കുന്നില്ല ഒരു നഷ്ടം സംഭവിക്കുന്ന ഏകീകൃത മാധ്യമമാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് അതിനാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും എനിക്ക് ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടെന്ന് കരുതുക അതിനുള്ളിൽ ഞാൻ FDTD ചെയ്യുന്നു വസ്തുക്കൾ പോലുമല്ലാത്ത ഒരു 1D മാധ്യമം മാത്രമാണ് നമ്മൾ ഇപ്പോൾ പരിഗണിക്കുന്നത് അതിനാൽ നഷ്ടം സംഭവിക്കുന്ന ഒരു മാധ്യമത്തിൽ ABC യുടെ പ്രഭാവം എന്താണെന്നാണ് നമ്മൾ കാണുന്നത് ഒരു നഷ്ടരഹിത മാധ്യമത്തിൽ ABC ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൃത്യമായിരുന്നു ഞാൻ ഈ തരംഗ സമവാക്യം പരിഹരിക്കുമ്പോൾ ഇത് മുമ്പത്തെപ്പോലെ എനിക്ക് ലഭിക്കുന്ന ഒരു പരിഹാരമാണ് ഇവിടെ അതിശയിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നാൽ ഞാൻ ഇതിനകം സൂചിപ്പിച്ച ആണ് അതിനാൽ ഇവിടെ നിന്ന് എനിക്ക് എന്നത് ഈ പദപ്രയോഗത്തിന്റെ ഒരു വർഗ്ഗമൂലമായി ലഭിക്കും ഒരു മിശ്രസംഖ്യയുടെ വർഗ്ഗമൂലം എനിക്ക് ഒരു മിശ്രസംഖ്യ നൽകുന്നു അതിനാൽ ഞാൻ ഇത് എന്നിങ്ങനെ എഴുതാൻ പോകുന്നു ഞാൻ ഇവിടെ പറഞ്ഞ പരിഹാരങ്ങൾ പ്ലസ്സിലും മൈനസ്സിലും ഉള്ളതാണ് അതിനാൽ ഇത് എനിക്ക് ഒരു മുന്നോക്കവും പിന്നോക്കവും ആയ തരംഗം നൽകുന്നു അപ്പോൾ മുന്നോക്ക തരംഗം എങ്ങനെയായിരിക്കും ഇതുപോലെ തന്നെയാണ് അതിനാൽ എന്നെനിക്ക് ലഭിക്കുന്നു വിദ്യാർത്ഥി മൈനസ് ഇപ്പോൾ നമുക്ക് അത് വാസ്തവികവും സാങ്കൽപ്പികവുമായ പദങ്ങളുടെ അടിസ്ഥാനത്തിൽ വിപുലീകരിക്കാം അപ്പോൾ എനിക്ക് എന്ന് ലഭിക്കുന്നു തുടർന്ന് എന്ത് സംഭവിക്കും ഗുണനം മൈനസ് അതെ അതിനാൽ അത് എന്തായിരിക്കും പ്ലസ് അല്ലെങ്കിൽ മൈനസ് എന്നതിൽ ഏതായിരിക്കും എനിക്ക് നൽകുന്നു വിദ്യാർത്ഥി പ്ലസ് 1 അതിനാൽ ഇത് തന്നെയാണോ ലഭിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പരിശോധിക്കാം അതിനാൽ ഞാൻ ഒരു പ്ലസ് ആയി ഇത് എഴുതാൻ പോവുകയാണ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഏത് എങ്ങനെ എഴുതണം എന്നത് നമ്മളെ ആശ്രയിച്ചിരിക്കും അടയാളം ഏതായാലും ലേക്ക് ആഗിരണം ചെയ്യപ്പെടും അതിനാൽ ഞാൻ ഇത് എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ ഇവിടെ ഈ ചിഹ്നത്തിന് എന്ത് സംഭവിക്കും എന്തുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് തരംഗം നഷ്ടം സംഭവിക്കുന്ന ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ അത് ക്ഷയിക്കണം വ്യാപ്തിയിൽ അത് ഉയരാൻ പാടുകയില്ല അത് ശരിയായിരുന്നു അല്ലേ വിദ്യാർത്ഥി അത് ശരിയാണ് അല്ല എങ്ങനെയാണ് j വിദ്യാർത്ഥി കാരണം അത് മൈനസ് ആണ് അല്ലെങ്കിൽ x ൻറെ ചിഹ്നത്തിൻറെ കൂടെയും ഒരു മൈനസ് ഉണ്ട് വിദ്യാർത്ഥിഅതെ ശരിയാണ് അത് ഒരു പ്ലസും മൈനസ് ചിഹ്നവും ആകുന്നു അതെ ശരിയാണ് അതിനാൽ ഇവിടെ ഇപ്പോൾ ധാരാളം മൈനസ് ചിഹ്നങ്ങൾ ആയി അതിനാൽ തരംഗം സഞ്ചരിക്കുമ്പോൾ ക്ഷയിക്കുന്നു പിന്നോക്ക തരംഗം ആകുന്നു ഈ തരംഗം ക്ഷയിക്കുന്നുണ്ടോ ഇതും ക്ഷയിക്കുന്നു ഈ തരംഗം ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഇത് നെഗറ്റീവ് x ദിശയിലാണ് സഞ്ചരിക്കുന്നത് അതിനാൽ x ഇവിടെ കുറയുന്നു അതിനാൽ ഈ തരംഗം സഞ്ചരിക്കുന്നതിനു കൂടെ ക്ഷയിക്കുന്നു അതിനാൽ അത് ശരിയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രത്യക്ഷത്തിലും അർത്ഥവത്തായ പരിഹാരം ലഭിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കുക പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ എന്നത് കെ പ്രൈമിനു തുല്യമായിരിക്കും എന്നിവ രണ്ടും പോസിറ്റീവ് സംഖ്യകളായി മാറും എനിക്ക് സമയത്തിന് വിപരീത സൈൻ കൺവെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ലഭിക്കും നിങ്ങളുടെ സമയ കൺവെൻഷൻ പ്രശ്നത്തിന്റെ ഭൌതികശാസ്ത്രത്തെ മാറ്റില്ല പക്ഷേ തരംഗം ക്ഷയിക്കും അതിനാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചില സ്ഥലങ്ങളിൽ ഒരു കൺവെൻഷൻ ഉണ്ടാകും ആ സാഹചര്യത്തിൽ ഫലപ്രദമായ പെർമിറ്റിവിറ്റിക്ക് ഒരു പോസിറ്റീവ് സാങ്കൽപ്പിക ഭാഗം ഉണ്ടാകും അതിനാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പരിഗണിക്കുന്ന സാഹചര്യം എന്തെന്നാൽ ഇതാണ് എന്റെ അതിർത്തി ഇവിടെ വന്നു പതിക്കുന്ന ഒരു തരംഗമുണ്ട് ഒരു പ്രതിഫലനം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നു നഷ്ടമില്ലാത്ത മാധ്യമത്തിന് ആണെന്ന് നമ്മൾ ഇതിനകം കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിനാൽ ഇവിടെ എനിക്ക് ആകെ ഉള്ള ഫീൽഡ് എന്താണ് നമുക്ക് ഇങ്ങോട്ട് വരാം ഇതാണ് എന്റെ പശ്ചാത്തലം അതിനാൽ ആകെ ഫീൽഡ് എന്നാൽ പതിക്കുന്നതും പ്രതിഫലിക്കുന്നതുമായ ഫീൽഡിൻ്റെ തുകയാണ് നമ്മൾ FDTD നടപ്പാക്കുമ്പോൾ ആകെ ഫീൽഡ് എന്നാൽ പതിക്കുന്നത് പ്ലസ് പ്രതിഫലിക്കുന്നത് ആണ് ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്ന എന്റെ അതിർത്തി വ്യവസ്ഥ എന്തായിരുന്നു ഇത് വലതു അതിർത്തിക്ക് പ്ലസ് ആണോ അതോ മൈനസ് ആണോ അപ്പോൾ അതാണ് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത് അതിനാൽ പതിക്കുന്നതാണ് മുന്നോട്ടുള്ള സഞ്ചാര തരംഗം പ്രതിഫലിച്ചത് ഒരു പിന്നോക്ക സഞ്ചാര തരംഗമാണ് അതിനാൽ ഞാൻ ഇത് എന്ന് എഴുതാൻ പോകുന്നു പിന്നോക്ക തരംഗത്തെ പ്രതിഫലന ഘടകം R എന്ന് ഞാൻ എഴുതുന്നു ഇപ്പോൾ ഞാൻ ഇവ രണ്ടും ഒരുമിച്ച് ചേർക്കുകയും ഈ അതിർത്തി വ്യവസ്ഥ പ്രയോഗിക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ ഡെറിവേറ്റീവുകൾ പ്രദേശത്തെ സംബന്ധിച്ച് സംഭവിക്കും ആദ്യത്തേത് d by dx ആയിരിക്കും അതിനാൽ എനിക്ക് ലഭിക്കുന്ന ആദ്യ പദം എന്താണ് എനിക്ക് ഒരു ലഭിക്കുന്നു തുടർന്ന് എനിക്ക് എന്നാൽ പതന മണ്ഡലത്തിൽ ഉള്ള പ്ലസ് R തവണ ഇതാണ് ഭാഗത്തെ ആശ്രയിക്കുന്നത് പിന്നീട് 1 by c ഇവിടെ എന്താണ് സമയത്തിൻ്റെ ഭാഗം അത് ആണ് ഇത് 0 ന് തുല്യമായിരിക്കും ഇതിൽ ABC പ്രയോഗിക്കുന്നു അതിനാൽ ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാ R കളും ഒരു വശത്ത് ശേഖരിച്ച് പദപ്രയോഗം എഴുതുക എന്നതാണ് അതിനാൽ എനിക്ക് ലഭിക്കുന്നത് എന്നത് പ്രതിഫലന ഘടകമാണ് അതിനാൽ അത് നിങ്ങളോട് എന്താണ് പറയുന്നത് നമ്മുടെ ABC യിൽ അതിർത്തി വ്യവസ്ഥ ചുമത്താൻ നമ്മുടെ കൈയിലുള്ള ഒരേയൊരു കാര്യം എന്താണ് 1D ABC അല്ലെങ്കിൽ 2D ABC കളിലെന്നപോലെ നമ്മൾ യ്ക്കു മുകളിലായി എന്നൊരു ഘടകം സ്ഥാപിക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സംഖ്യ c ഉപയോഗിച്ച് കളിക്കാം ഇപ്പോൾ നമുക്ക് ചില കോസ് തീറ്റ കൊണ്ട് ഗുണിക്കാം എന്നാൽ ഇപ്പോൾ ഈ പദപ്രയോഗം കാണുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആദ്യം ആകുമ്പോൾ എന്താണെന്ന് നോക്കാം അതിനാൽ നഷ്ടം സംഭവിക്കാത്ത മാധ്യമത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് എന്ന് ചെയ്യാൻ കഴിയുമോ അതിനാൽ ഞാൻ ആക്കിയാൽ അത് പൂർത്തിയായി എനിക്ക് 0 പ്രതിഫലന ഘടകം ലഭിക്കുന്നു പക്ഷേ എനിക്ക് 0 ന് തുല്യമല്ലാത്ത ഒരു നഷ്ടമുണ്ടാകുന്ന മാധ്യമമുണ്ടെങ്കിൽ പ്രതീക്ഷയില്ല എനിക്ക് ഈ പദപ്രയോഗം 0 ന് തുല്യമാക്കാൻ കഴിയില്ല എങ്ങനെ എനിക്ക് ഈ പദപ്രയോഗം 0 ന് തുല്യം ആക്കാൻ കഴിയും അതിനെപ്പോഴും ഒരു സാങ്കല്പിക സംഖ്യാഭാഗം ഉണ്ടായിരിക്കും എനിക്ക് വാസ്തവിക സംഖ്യാഭാഗം 0 ആക്കാനാകും പക്ഷേ പ്രതിഫലന ഘടകം അപ്പോഴും അവിടെ ഉണ്ടാകും വിദ്യാർത്ഥി അതിനോടുകൂടി ഇപ്പോൾ വിദ്യാർത്ഥി അതിനോടുകൂടി ഒമേഗ by c യെ kr മൈനസ് jki ക്ക് തുല്യമാകുമോ ഇല്ല ഒമേഗ by c എന്നത് ഒരു വാസ്തവിക സംഖ്യയാണ് അപ്പോൾ ഒമേഗ by c എങ്ങനെ k r മൈനസ് j k i ക്ക് തുല്യമാകും അതെ അതിനാൽ ഒരു വാസ്തവിക സംഖ്യ എങ്ങനെ മിശ്രസംഖ്യയ്ക്ക് തുല്യമാകും അത് ശരിയായിരിക്കില്ല അതിനാൽ ഈ പദപ്രയോഗത്തെ 0 ലേക്ക് ആക്കാൻ കഴിയുന്ന c ക്ക് സമാനമായ ഒരു മൂല്യവും എനിക്കില്ല അതിനാൽ സാധ്യമല്ല അതിനാൽ മാധ്യമം നഷ്ടം സംഭവിക്കുന്നത് ആണെങ്കിൽ 1 D യിൽ പോലും ABC പരാജയപ്പെടുമെന്നാണ് നിഗമനം അതിനാൽ ഈ സാഹചര്യത്തെപ്പറ്റിയുള്ള പ്രായോഗിക മാർഗം എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മാധ്യമം ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് കരുതുക അതിൽ ABC പ്രയോഗിക്കണം എന്ന് കരുതുക അപ്പോൾ അതിനുള്ള മാർഗ്ഗം എന്താണ് അതിനാൽ ഈ തരംഗങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക ക്ഷയിക്കുന്ന ഭാഗങ്ങളുള്ള ഇത്തരം തരംഗങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുക വിദ്യാർത്ഥി പരിണാമ തരംഗങ്ങൾ അതെ വീണ്ടും പരിണാമ തരംഗങ്ങൾ ആണ് അവ അതിനാൽ അതിരുകളുടെ അവസ്ഥ തികഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അവ ഉപയോഗിക്കാനാകുന്ന പരിണാമ തരംഗങ്ങളുടെ ഒരേയൊരു സവിശേഷത എന്താണ് അവ പ്രദേശത്തിന് അനുസരിച്ച് ക്ഷയിക്കുന്നു അതിനാൽ നിങ്ങൾ ആഗിരണം ചെയ്യുന്ന അതിർത്തി വ്യവസ്ഥയെ വസ്തുക്കളിൽ നിന്ന് കൂടുതൽ അകറ്റേണ്ടതുണ്ട് അതിനാൽ അപൂർണ്ണമാണെങ്കിലും തരംഗം അവിടെ പതിക്കുന്നു എന്നാലും അത് ക്ഷയിക്കുന്നു അതിനാൽ ഇവിടത്തെ ജോലി വസ്തുവിനും അതിർത്തിക്കുമിടയിലുള്ള വലിയ ദൂരമാണ് കാരണം ഞാൻ 1D യിൽ നിന്ന് വ്യതിചലിക്കുന്ന നിമിഷം എനിക്ക് ഒരു പ്രതിഫലന നഷ്ടം സംഭവിക്കുന്നു അതായത് നമ്മൾ മുമ്പ് കണ്ട പ്രതിഫലന ഘടകം പൂജ്യമല്ലാത്ത പ്രതിഫലനമാണ് അതിനാൽ ABC പരാജയപ്പെടുന്നുവെന്ന് നമ്മൾ പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ആദ്യത്തേത് തീർച്ചയായും ലംബം അല്ലാത്ത പതനം ഒരു പ്രതിഫലന ഘടകം നൽകുന്നു അത് പൂജ്യമല്ലാത്തതാണ് അത് നമ്മൾ ഇതിനകം കണ്ടതുമാണ് രണ്ടാമത്തേത് നഷ്ടം സംഭവിച്ച മാധ്യമങ്ങളാണ് അതിനാൽ നമ്മുടെ കണക്കുകൂട്ടൽ പ്രദേശത്തിൻറെ വലുപ്പം വളരെയധികം വർദ്ധിപ്പിക്കാത്തതും എനിക്ക് നല്ല കൃത്യത നൽകുന്നതുമായ മറ്റൊരു പരിഹാരമുണ്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലും വഴികളിലേക്ക് പോകാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു അതിനാൽ ഈ ഭാഗം വ്യക്തമാണ്